ഹലോ സുഹൃത്തുക്കളെ സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള ഓൺലൈൻ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ അഭിമുഖങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്ന് ഞാൻ നിങ്ങളോട് പറയാം വാസ്തവത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള അഭിമുഖങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കൂടാതെ അഭിമുഖങ്ങളുടെ തരങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ അഭിമുഖങ്ങൾക്കുള്ള അവസരങ്ങൾ എന്തായിരിക്കാം എന്നതിനെക്കുറിച്ചും സംസാരിച്ചു അവസാനം തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ എങ്ങനെ തയ്യാറാകാമെന്നു നമ്മൾ ചർച്ചചെയ്യുമെന്ന് തീരുമാനിച്ചു എങ്ങനെ ആസൂത്രണം ചെയ്യണം കാരണം മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ജോലി ആവശ്യമാണ് അഭിമുഖങ്ങളില്ലാതെ നമ്മൾക്ക് ജോലി നേടാനാവില്ല അതിനാൽ സമയം വന്നിരിക്കുന്നു നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു പ്രത്യേകിച്ചും ഇതിനകം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് അവരുടെ ജോലിയിൽ എങ്ങനെ പ്രമോഷനുകൾ നേടാം എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിനെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നു അതിനാൽ വിവിധ തയ്യാറെടുപ്പ് ഘട്ടങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് നിങ്ങൾ ഒരു ജോലിക്കായി ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ജോലിക്കായി ആസൂത്രണം ചെയ്യാൻ പോകുന്നുവെന്ന് നിങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചു നിങ്ങളുടെ ചോയിസുകൾക്കനുസൃതമായി നിങ്ങൾ ജോലികൾ തീരുമാനിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ചോയ്സ് ജോലി നേടുന്നതിനുള്ള ഘടകം മാത്രമാണ് നമുക്കെല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചില യോഗ്യതകളുണ്ട് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കി നമ്മൾ പരസ്യങ്ങൾക്കായി തിരയാൻ തുടങ്ങുന്നു പ്രത്യേകിച്ചും അവരുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവുകളിൽ ജോലി നേടാൻ കഴിയാത്തവർ അവരുടെ യോഗ്യതയിൽ കൂടുതൽ എന്തെങ്കിലും ചേർക്കാൻ അവർക്ക് ധാരാളം സമയം ലഭിച്ചു ഒപ്പം ഇപ്പോൾ അവർ ജോലികൾക്ക് അപേക്ഷിക്കാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ ജോലികൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഏത് മേഖലയിലാണ് ഏത് വിഭാഗത്തിലാണ് അവർക്ക് ജോലി വേണ്ടതെന്ന് തീരുമാനിക്കാൻ അവരെ അനുവദിക്കുക ഇപ്പോൾ അവർ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട് അവർ സ്വയം ചോദിക്കണം നമ്മൾ തയ്യാറെടുപ്പ് ഘട്ടങ്ങൾ എന്ന് വിളിക്കുന്നു ആദ്യത്തേത് സ്വയം വിശകലനം ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് സ്വയം വിശകലനം എന്നാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് സ്വയം വിശകലനം ചെയ്യാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ തെറ്റായ നടപടി സ്വീകരിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ആരെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ആരെങ്കിലും മാസ്റ്റേഴ്സ് പെയിന്റിംഗ് പക്ഷേ ചില സമയങ്ങളിൽ അവർക്ക് പ്രസക്തമായ മേഖലകളിൽ ജോലി ലഭിക്കാത്തതിനാൽ അവർ മറ്റൊരു ഫീൽഡിലേക്ക് മാറുന്നു ഇപ്പോൾ അവ എങ്ങനെ യോജിക്കും അല്ലെങ്കിൽ അവ എങ്ങനെ മിസ് ഫിറ്റായി മാറും എന്നത് സമയം മാത്രം പറയും പക്ഷേ മുൻകൂട്ടി ചിന്തിച്ച് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കി ഒരു കരിയർ അല്ലെങ്കിൽ ജോലി തീരുമാനിക്കുന്നത് നല്ലതല്ല അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കടമ സ്വയം വിശകലനം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക എന്നതാണ് ഇപ്പോൾ എല്ലായിടത്തും പറയുന്നു ഞങ്ങൾക്ക് വിദഗ്ധരായ ആളുകളെ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ബിരുദം നേടിയ ആളുകൾ എന്നിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നില്ല എന്താണ് കാരണം അവർക്ക് ആവശ്യമായ കഴിവുകൾ ഇല്ല എന്നാൽ നിങ്ങൾ വിദ്യാഭ്യാസം പിന്തുടരുന്നിടത്തോളം കാലം ഓർക്കുക നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചില കഴിവുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനോ അല്ലെങ്കിൽ ഉയർന്നുവരുന്നതിനോ പ്രസക്തമായ ഒരു മേഖലയിൽ ജോലി ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് തുടരേണ്ടതുണ്ട് നിങ്ങളുടെ അപ്ഡേറ്റുചെയ്യുന്നതിന്റെ അർഥം കഴിവുകൾ അപ്ഡേറ്റുചെയ്യുന്നു ഒരു വിദഗ്ദ്ധന് ഒരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ ഷൂസ് ശരിയാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കഴിവുകൾ പോലും ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിരിക്കാം യഥാർത്ഥത്തിൽ കാറുകൾ നന്നാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി അയാൾക്ക് നിങ്ങളുടെ ബൈക്കുകളും നന്നാക്കാൻ ഒരു വൈദഗ്ദ്ധ്യം ഉണ്ട് അവർ നിഷ്ക്രിയരായി ഇരിക്കില്ല അവർക്ക് നിങ്ങളുടെ യോഗ്യത ഉണ്ടായിരിക്കില്ല പക്ഷേ അവർക്ക് ചില കഴിവുകളുണ്ട് അതിനാലാണ് ഇപ്പോൾ ഒന്നിലധികം കഴിവുകൾ ഓർഗനൈസേഷനുകൾ ആവശ്യമാണെന്ന് ഈ ജോലിക്ക് നിയമിതനായതിനാൽ താൻ ഈ ജോലി മാത്രമേ ചെയ്യുകയുള്ളൂവെന്ന് ഇന്ന് ഒരാൾ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം കഴിവുകൾ ആവശ്യമാണ് നമ്മൾ ഇതിനെക്കുറിച്ചു ചർച്ച ചെയ്യും ഓർഗനൈസേഷനുകൾ അന്വേഷിക്കുന്ന ഈ കഴിവുകൾ എന്തൊക്കെയാണ് അതിനാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വൈദഗ്ദ്ധ്യം തിരിച്ചറിയുന്നു ഈ കഴിവുകളിൽ ചിലത് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കാം കൂടാതെ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽപ്പോലും നിങ്ങൾ ആ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കാനും ആ കഴിവുകൾ പഠിക്കാനും ആരംഭിച്ച സമയമാണിത് അടുത്തത് നിങ്ങളുടെ യോഗ്യതയെയും നൈപുണ്യത്തെയും ആശ്രയിച്ച് ഒരു ജോലിക്കായി അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും വിവിധ ഓർഗനൈസേഷനുകൾക്ക് വിവിധ കമ്പനികൾക്ക് വ്യത്യസ്ത സ്ഥാപനങ്ങൾ വ്യത്യസ്ത ജോലിസ്ഥലങ്ങളിൽ അപേക്ഷിക്കും ഇപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിനായ യഥാർത്ഥത്തിൽ ഓർഗനൈസേഷനെക്കുറിച്ച് ഗവേഷണം നടത്തണം ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓർഗനൈസേഷനെക്കുറിച്ചുള്ള ഗവേഷണം ഇപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ചോദ്യം വരും എന്ന് നിങ്ങൾക്കറിയില്ല ആ സംഘടന ഓർഗനൈസേഷനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അറിവ് ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമല്ലേ മറ്റൊരു ഘട്ടമുണ്ട് നിങ്ങൾ ജോലി സ്ഥാനത്തെക്കുറിച്ചും അറിയണം ഒരു മാനേജർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുവെന്ന് കരുതുക അതുവഴി ഒരു മാനേജറുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും എന്താണ് എന്ന മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മാനേജർ എന്ന നിലയിൽ എന്റെ പ്രതീക്ഷകൾ എന്തായിരിക്കും അതിനാൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിരുദം ഡിപ്ലോമ മാസ്റ്റേഴ്സ് എന്തും അറിയാമെന്നതിനാൽ വിഷയ പരിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുമതല എളുപ്പമാകും അതിനാൽ നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ട് എന്നാൽ നിങ്ങൾ 2 വർഷത്തോളം നിഷ്ക്രിയമായി ഇരുന്നുവെന്നും നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെന്നും കരുതുക എന്നാൽ നിങ്ങളുടെ അറിവ് അപ്ഡേറ്റുചെയ്യുന്ന 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കഴിവുകൾ അപ്ഗ്രേഡുചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിഷയ പരിജ്ഞാനം പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം മാസ്റ്റേഴ്സ് ചെയ്ത ഒരാൾ 1999 അല്ലെങ്കിൽ 2010 ൽ മാസ്റ്റേഴ്സ് ചെയ്തു അവൻ ഇപ്പോൾ ഒരു ജോലിക്കായി ശ്രമിക്കുന്നതെല്ലാം പ്രയോഗിക്കുന്നു തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു ഒരു വ്യക്തിയെന്ന നിലയിൽ ഒരു വാക്ക് ഓർമ്മിക്കുക അവൻ അറിയാവുന്നതും നന്നായി അറിവ് അപ്ഡേറ്റുചെയ്തിരിക്കണം കൂടാതെ നിങ്ങൾ എഴുതുന്നതിനോ ഡ്രാഫ്റ്റുചെയ്യുന്നതിനോ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം ഉണ്ടായിരിക്കണം പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ എല്ലാ തയ്യാറെടുപ്പ് ഘട്ടങ്ങളുടെയും ആവശ്യകതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആദ്യത്തേത് സ്വയം അറിയുക സ്വയം അറിയുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്താണ് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് ഒരു വ്യക്തി സ്വയം അറിയാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ തെറ്റായിരിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ഞാൻ പറയുകയും ചെയ്യുന്നു ഒന്നുകിൽ നാം നമ്മെത്തന്നെ കുറച്ചുകാണുന്നു അല്ലെങ്കിൽ സ്വയം അമിതമായി വിലയിരുത്തുന്നു ഞാൻ ആരാണെന്ന് സ്വയം മനസിലാക്കാൻ ശ്രമിക്കുന്നില്ല സ്വയം ചോദിക്കുക ഞാൻ ആരാണ് ആളുകൾ സ്വയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ പല ചെറുപ്പക്കാരും പറഞ്ഞേക്കാം സർ എനിക്ക് എന്ത് നേട്ടങ്ങളുണ്ട് എന്റെ പ്രിയ സുഹൃത്തേ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ട് നിങ്ങളുടെ മുഴുവൻ കോളേജ് ജീവിതത്തിലും നിങ്ങൾക്ക് ഒരു നല്ല സംവാദകനാകാൻ കഴിയുന്നിടത്ത് എന്തെങ്കിലും നേടാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് വളരെ നല്ല പ്രഭാഷകനാകാം നിങ്ങൾക്കും ഒരു നല്ല കായിക അഭ്യാസി ആകാൻ കഴിയുമായിരുന്നു നിങ്ങൾക്ക് ശരിയായ കഴിവുണ്ടോ നിങ്ങൾക്ക് ധാരാളം കഴിവുളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരു പേപ്പർ വായിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് മികച്ച പേപ്പർ റീഡേഴ്സ് അവാർഡ് ലഭിച്ചു അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ആരാണ് അതിനാൽ നിങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കും ഞാൻ പറയുന്നതുപോലെ ഓരോ വ്യക്തിക്കും ചില ശക്തികളും ചില ബലഹീനതകളും ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ശക്തി എന്താണ് ഗുണനിലവാരമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ചില ഗുണനിലവാരമുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വളരെ നല്ല സംസാര ശേഷി ലഭിച്ചു മറുവശത്ത് ഒരാൾക്ക് ജോലി തേടുമ്പോൾ സ്വാഭാവികമായും വളരെ നല്ല എഴുത്ത് കഴിവുകൾ ലഭിച്ചു മറ്റൊരാൾക്ക് നല്ല ബോധ്യപ്പെടുത്തുന്ന കഴിവ് ലഭിച്ചു അവന്റെ സാങ്കേതിക യോഗ്യത കൂടാതെ അല്ലെങ്കിൽ വിഷയ പരിജ്ഞാനത്തിന് പുറമെ അതിനാൽ അദ്ദേഹം ചെയ്യേണ്ടത് മാനവ വിഭവശേഷി മാനേജുമെന്റ് ആവശ്യമുള്ള ഒരു ജോലി അന്വേഷിക്കും അവിടെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് വേറെ ആളുകളുണ്ട് സ്വാഭാവികമായും അഭിമുഖം നടത്തുന്ന ആളുകളുമായി സംസാരിക്കാൻ വളരെ നല്ലവരായ അദ്ദേഹം പ്ലെയ്സ്മെന്റ് സെല്ലിൽ ജോലി നേടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അദ്ദേഹം റിക്രൂട്ട്മെന്റ് സെല്ലുകളുടെ ഭാഗമാകും അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ട് ഒരേയൊരു കാര്യം സ്വയം നോക്കുക എന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ശക്തി തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് നിരവധി ശക്തികളുണ്ട് നിങ്ങൾക്ക് നേതൃത്വമുണ്ട് നിങ്ങൾക്ക് എഴുത്ത് കഴിവുണ്ട് നിങ്ങൾക്ക് മുൻകൈയെടുക്കാൻ കഴിവുകളുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടിംഗ് കഴിവുകളുണ്ട് നിങ്ങൾക്ക് സി ൽ ബിരുദം ഉണ്ട് മറ്റൊരാൾക്ക് ഒറാക്കിളിൽ ബിരുദം ഉണ്ട് മറ്റൊരാൾക്ക് അപ്ഡേറ്റുചെയ്ത മറ്റ് ചില പ്രോഗ്രാമുകളും എല്ലാം പറയാനുള്ള അറിവുണ്ട് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളാണവ കാരണം നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഒരുപക്ഷേ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ റിക്രൂട്ട് ചെയ്യുന്നയാൾ അറിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞേക്കും അയാളുടെ ഓർഗനൈസേഷനിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള വ്യക്തിയായിരുന്നു തുടർന്ന് നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ ആസൂത്രണം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഒരു അധ്യാപകനാണെന്ന് കരുതുക എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കാം പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കാം ഇവിടെയും അവിടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രസംഗങ്ങൾ നടത്താനും എനിക്ക് ഒരു പദ്ധതിയുണ്ടാകാം ചില അഡ്മിനിസ്ട്രേറ്റീവ് മിടുക്കുകളും ഉണ്ടായിരിക്കാനുള്ള പദ്ധതിയും എനിക്കുണ്ടാകാം അതിനാൽ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മിടുക്ക് വികസിപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സിഇഒ ആകാൻ പദ്ധതി ഉണ്ടായിരിക്കാം പരിശീലനത്തിന്റെയും പ്ലെയ്സ്മെന്റ് സെല്ലിന്റെയും ചുമതല വഹിക്കാൻ പദ്ധതി ഉണ്ടായിരിക്കാം അതിനാൽ നിരവധി മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു ആസൂത്രണമുണ്ട് മറ്റൊരാൾക്ക് ജനറൽ മാനേജരാകാൻ ഒരു പദ്ധതി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഗനൈസേഷന്റെ പ്രാദേശിക തലവനാകാൻ ആരെങ്കിലും ചിന്തിച്ചിരിക്കാം ഇപ്പോൾ ആസൂത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളും ഉൾപ്പെടുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ശരിക്കും വ്യക്തമാണോ ഈ ജോലിയിൽ വർഷങ്ങളുടെ പരിചയത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓർഗനൈസേഷൻ തുറക്കുമെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ വീണ്ടും അതിന് ധാരാളം ഗുണങ്ങൾ ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം നിങ്ങളുടെ മുൻകാല നേട്ടങ്ങളും പരിശോധിക്കണം ഈ വർഷങ്ങളിലെല്ലാം നിങ്ങൾ എന്തുചെയ്തു നിങ്ങൾ ഇത്രയധികം വർഷങ്ങളായി ജോലി ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ സ്വയം നോക്കുക ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒരുതരം വിലയിരുത്തൽ നടത്തുക എന്നതാണ് ഈ വർഷങ്ങളിൽ നിങ്ങൾ എത്രത്തോളം പേപ്പറുകൾ ഏതുതരം പേറ്റന്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയത് വിജ്ഞാന മേഖലയിലെ എന്റെ സംഭാവന എന്താണ് കമ്പ്യൂട്ടർ ലോകത്തിന് എന്റെ സംഭാവന എന്താണ് ധനകാര്യ ലോകത്തേക്ക് ഞാൻ എന്താണ് ചേർത്തത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾക്ക് സ്വയം മനസിലാക്കാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ കടമ അറിയുക എന്നതാണ് നിങ്ങളുടെ കഴിവുകൾ വിശകലനം ചെയ്യണമെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിരവധി കഴിവുകൾ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ മുൻഗണന നൽകണം നിങ്ങൾക്ക് നന്നായി ചെയ്യാനാകുമെന്ന് നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് തോന്നുന്ന അത്തരം ഒരു കഴിവിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ നല്ലത് നിങ്ങൾ അതിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം അത് നിങ്ങളുടെ സ്വന്തം വ്യാപാരമുദ്രയായി മാറും അത് നിങ്ങളുടെ സ്വന്തം യുഎസ്പിയായി മാറും അനന്യമായ വിൽപ്പന ഉൽപ്പന്നം ആ ജോലിക്കായി നിങ്ങളെ മാത്രമേ വിളിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ എന്ത് വിലമതിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത് വളരെ നിർദ്ദിഷ്ടമായ ഒരു ചോദ്യമാണ് ഇത് വളരെ ആത്മനിഷ്ഠമാണ് നിങ്ങളിൽ ചിലർ ഒരു തരം സ്ഥാനത്തെ വിലമതിക്കുന്നു എൻറെ വിഷയം എന്തെങ്കിലും സംസാരിക്കുമ്പോഴെല്ലാം എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വളരെയധികം പോസ്റ്റുകൾ ആവശ്യമില്ലെന്ന് എന്റെ വിഷയത്തിൽ അറിയപ്പെടുന്ന ഒരു ഗവേഷകനായി അറിയപ്പെടാൻ മാത്രം വിശ്വസിക്കുന്ന ചില ആളുകൾ മൂല്യത്താൽ ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ് നിങ്ങൾ വിലമതിക്കുന്നത് മറ്റ് പരിഗണനകളും ഉണ്ട് ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മിടുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കഴിവുകൾ എന്നിവയ്ക്കായി എല്ലായ്പ്പോഴും അവനെ ഓർമ്മിക്കണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള പ്രചോദനം ഉള്ള ചില ആളുകളുണ്ട് അതായത് ധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എനിക്ക് വളരെ നല്ല ഒരു പാക്കേജ് ഉണ്ടായിരിക്കണം ഇത് പാക്കേജിന്റെ ലോകമാണ് അതിനാൽ എനിക്ക് കൂടുതൽ പണം ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ പരിഗണന പണം നില പവർ ആണോ അതിനാൽ ഇവയെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണിവ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും ഒപ്പം നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കുന്നതും വ്യത്യസ്തമായിരിക്കും അദ്ദേഹത്തിന് ചുറ്റും ഒരുതരം കാറ്ററി ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏകാന്ത സുഖപ്രദമായ കാബിൻ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്താനും ഇൻകുബേറ്റ് ചെയ്യാനും ഒരു ലബോറട്ടറി അവിടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ ആളുകൾ പലപ്പോഴും ചിന്തിക്കേണ്ട വ്യത്യസ്ത കാര്യങ്ങളാണിവ തുടർന്ന് ഞാൻ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും നിങ്ങൾ വിവരിക്കേണ്ടതാണ് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നും പെരുമാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനരീതിയെക്കുറിച്ചും ഞാൻ അർത്ഥമാക്കുന്നു ഒരു ഗ്രൂപ്പിനൊപ്പം പോകുക അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക ആരെങ്കിലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഇന്നത്തെ ഓർഗനൈസേഷന് യോഗ്യനല്ല ഒരു ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരിക്കാനുള്ള ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവമെന്താണെന്നും ചിന്തിക്കു നിങ്ങൾ ഒരു ഗ്രൂപ്പുമായി പോകുന്നുണ്ടോ നിങ്ങളുടെ അംഗങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങൾ എത്ര വേഗത്തിൽ മാനസികമായി ജാഗരൂകരാണെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാനാകും നിങ്ങൾക്ക് എങ്ങനെ ഒരുതരം ദീർഖവീക്ഷണം ലഭിക്കും ഭാവിയിൽ എന്ത് സംഭവിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ദർശനം ഉണ്ടോയെന്നത് നിങ്ങൾ ഒരു ദർശകനാണോ എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി മുന്നോട്ട് നോക്കുന്ന വ്യക്തിയും ഇന്ന് ചെയ്യുന്നതെന്തും നാളെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കും അതിനാൽ നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നും ജോലിയുടെ കാര്യത്തിലും നിങ്ങൾ ചിന്തിക്കേണ്ടി വരും നിങ്ങൾ ആക്രമണോത്സുകനാണോ അതോ ജനാധിപത്യപരമാണോ പതുക്കെ പക്ഷേ സ്ഥിരമായി നീങ്ങണമെന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിനാൽ നിങ്ങൾ വിശകലനം ചെയ്യേണ്ട വ്യത്യസ്ത കാര്യങ്ങളാണിവ നിങ്ങൾ മന്ദഗതിയിലായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പക്ഷേ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുവെന്ന് കാണും ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ പൂർണതയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അർത്ഥമാക്കുന്നത് ഒരു തികഞ്ഞ വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് എന്നാൽ കൊള്ളാം അതിനാൽ ഇവയും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചുകഴിഞ്ഞാൽ ഒരാൾ എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര സാവധാനത്തിലാണ് ചിന്തിക്കുന്നതെന്ന് സ്വയം ചിന്തിക്കണം നമ്മൾ സ്വയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്റെ പശ്ചാത്തലം എന്താണ് എന്തിനാണ് ഞാൻ ഇവയെല്ലാം പറയുന്നത് എന്ന് അർത്ഥമാക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ എഴുതാൻ പോകുമ്പോൾ ഇവയെല്ലാം ശ്രദ്ധിക്കും അവ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പശ്ചാത്തലത്തിൽ പരാമർശിക്കപ്പെടും അതിനാൽ ഞാൻ പശ്ചാത്തലം പറയുമ്പോൾ ഏത് തരം സ്കൂളുകളാണ് ഉദ്ദേശിക്കുന്നത് പുറം ലോകത്തോടുള്ള എന്റെ എക്സ്പോഷർ എത്രത്തോളം പരിചിതമാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ ലോകത്തിന്റെ മുന്നേറ്റത്തിനൊപ്പമാണോ അതിനുശേഷം നിങ്ങൾ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ഒരു പ്ലസ് ഗ്രേഡോ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേപ്പറുകൾ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഒതുങ്ങുന്നു നിങ്ങൾക്ക് ലഭിച്ച ബിരുദം അല്ലാതെ നിങ്ങൾക്ക് കൂടുതലൊന്നും ഇല്ല അതിനാൽ അഭിമുഖത്തിനിടയിൽ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നില്ല കാരണം നിങ്ങളെ എല്ലാ കോണുകളിൽ നിന്നും അഭിമുഖത്തിൽ നിന്നും നിരവധി ആളുകൾ വിഭജിക്കും അത് ഒരു പാനൽ അഭിമുഖമായിരിക്കുകയാണെങ്കിലോ മറ്റെന്തെങ്കിലുമോ ആണെങ്കിൽ അതിനാൽ നിങ്ങളുടെ ഹോബികളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കാം ചിലപ്പോഴൊക്കെ നിങ്ങൾക്കറിയാവുന്ന ആളുകൾ അവർ മനപൂർവ്വം മനസിലാക്കുമ്പോൾ അവർ നിങ്ങളുടെ ഹോബികളെക്കുറിച്ചും നിങ്ങളോട് ചോദിച്ചേക്കാം കാരണം നിങ്ങളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ചും അവർ നിങ്ങളോട് ചോദിക്കും കാരണം സുഖമുള്ള ഒരു വ്യക്തിയെ ലഭിക്കാൻ താൽപ്പര്യമുണ്ട് മറ്റ് പ്രവർത്തനങ്ങൾക്ക് സമയമില്ലാത്ത ഒരാളെ ബുക്കിഷ് ചെയ്യുന്ന ഒരാളായി മാത്രം കണക്കാക്കരുത് കാരണം നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ആയിരിക്കുമ്പോഴോ ജോലിസ്ഥലത്ത് നിന്ന് മാറി ജോലിസ്ഥലത്ത് ആയിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഒരുതരം സാമൂഹിക ബന്ധം ഉണ്ടായിരിക്കണം ഈ സാമൂഹിക ബന്ധങ്ങൾ തുടരുന്നതിനും നിലനിർത്തുന്നതിനും നിങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഒരു ജോലിക്കാരനാണെങ്കിലും മറ്റ് കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് തുടർന്ന് നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നിർദ്ദിഷ്ട ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യം വിപ്രോയിലോ ഇൻഫോസിസിലോ ഒരു സ്ഥാനത്തിനായി ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ എൽ ആൻഡ് ടി എന്നിവയിൽ ചില ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിലെ പ്രശസ്തരായ മറ്റ് ഓർഗനൈസേഷനുകളിൽ ഓർഗനൈസേഷൻറെ വെബ്സൈറ്റിലേക്ക് പോയി നിങ്ങൾ കുറച്ച് മണിക്കൂറുകൾ ചിലവഴിക്കേണ്ട സമയമാണിത് നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഇല്ലായിരിക്കാം എന്നാൽ ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് നിങ്ങളെ പ്രവർത്തനത്തെക്കുറിച്ച് ധാരാളം പറയും ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കാം ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക ഓർഗനൈസേഷന് അപേക്ഷിക്കുമ്പോഴും ഒരു പ്രത്യേക സ്ഥാനത്തിനായി ഈ ഓർഗനൈസേഷൻ വന്ന വളർച്ചാ നിരക്കിനെക്കുറിച്ചും നിങ്ങൾ ഒരു ചരിത്ര വിശകലനം നടത്തുകയാണെങ്കിൽ അത് എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം കമ്പനി വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്താണ് ജോലി സംസ്കാരം നിങ്ങൾ ജോലിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഒരു എംഎൻസിയിൽ അപേക്ഷിക്കാൻ പോകുകയാണെങ്കിൽ എല്ലാ സംസ്കാരത്തിലുമുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തും എല്ലാ സംസ്കാരങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടാകും കൂടാതെ ഏതുതരം ഭാഷയാണ് അവിടെ സംസാരിക്കുകയെന്നും നിങ്ങൾക്ക് ചിന്തിക്കാനാകും നിങ്ങൾ ഒരു ഭാഷയിൽ നൈപുണ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദൈനംദിന എക്സ്ചേഞ്ചുകളുടെയും മറ്റെല്ലാവരുടെയും കറസ്പോണ്ടൻസ് ഭാഷ പിന്തുടരുന്ന ഭാഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നില്ല അതിനാൽ ഓർഗനൈസേഷന് ഒരു സഹകരണ സംസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് തൊഴിൽ സംസ്കാരം എന്താണ് കോർപ്പറേറ്റ് സംസ്കാരം അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനിടയുള്ള സാഹചര്യങ്ങളുണ്ടാകാം കാരണം നിങ്ങൾ ഒരു ഓർഗനൈസേഷനായി അപേക്ഷിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക ചില പുതിയ ഉൽപ്പന്നങ്ങൾ കാരണം നിങ്ങൾ റിലയൻസ് വ്യവസായങ്ങളിൽ ചേരാൻ പോകുന്നുവെന്ന് കരുതുക അല്ലെങ്കിൽ റിലയൻസ് ജിയോ ഇപ്പോൾ നിങ്ങൾ റിലയൻസ് ചെയ്ത പുതിയ കാര്യങ്ങളുമായി അപ്ഡേറ്റ് നടത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടില്ല അതിനാൽ നിങ്ങൾ ഒരു ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ ഓർഗനൈസേഷനെക്കുറിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് നിങ്ങള്ക്ക് ജോലി കിട്ടുന്നു എന്റെ ജോലി എന്തായിരിക്കും എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ കമ്പനി വെബ്സൈറ്റ് നോക്കുകയും നിങ്ങളുടെ സ്വന്തം ഗുണനിലവാരവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നോക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനാൽ നിങ്ങൾക്ക് അവിടെ ഒരു അവസരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ എല്ലാം ശരിയായി നടക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് ചോദിക്കാനും കഴിയും ഏത് ദൌത്യം നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായി ചെയ്യാൻ കഴിയും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള അവസരം നിങ്ങൾക്ക് എന്ത് പ്രത്യേക ചുമതലകൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ എന്ത് പ്രത്യേക ചുമതലകൾ നൽകാം എന്നിവയുമായി നിങ്ങൾക്ക് ഒരു ഡീൽ നടത്താം അതിനാൽ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട് ചില വെല്ലുവിളികൾ ഉണ്ട് എനിക്ക് ആ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഇവയെ ചുറ്റിപ്പറ്റിയാകാം കാരണം മനശസ്ത്രജ്ഞരും അവിടെ ഇരിക്കും അതിനാൽ അവർ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം നൽകുകയും നിങ്ങളുടെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയാമെന്നതാണ് ചോദ്യം നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയൂ അതിനാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസിലാക്കാൻ ശ്രമിക്കുക നിരവധി ഓർഗനൈസേഷനുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് നിങ്ങൾ ചേരാൻ പോകുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ ഒരു പ്രത്യേക പ്രദേശത്ത് പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കാരണം ചോദ്യങ്ങൾ ഉണ്ടാകാം ആ പ്രദേശത്തുനിന്നും വരികയും തുടർന്ന് ലക്ഷ്യബോധമുള്ള ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ അറിഞ്ഞിരിക്കണം അതിനാൽ കരിയർ സാധ്യതകൾ എന്താണെന്നും മെച്ചപ്പെടുത്തൽ അവസരങ്ങൾ എന്താണെന്നും കാണണം പ്രമോഷനുകൾ എത്ര വേഗത്തിൽ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നു എന്താണ് തൊഴിൽ സംസ്കാരം ഇവയെല്ലാം നിങ്ങളുടെ ചുമതല എളുപ്പമാക്കും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് പോലെ ചില കഴിവുകൾ ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കഴിവുകൾ 2 ആയി തിരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരാൾക്ക് അവബോധജന്യമായ കഴിവുകൾ ആകാം അവബോധജന്യം എന്ന വാക്ക് അവബോധത്തിൽ നിന്നാണ് നിങ്ങളുടെ ഉള്ളിൽ ചില കഴിവുകളുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നാൽ നിങ്ങൾ വികസിപ്പിക്കേണ്ട ചില കഴിവുകളുണ്ട് ഇപ്പോൾ ഇവിടെ അവബോധജന്യമായ കഴിവുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ നമ്മിൽ മിക്കവർക്കും ഒരു പരിധിവരെ അല്ലെങ്കിൽ മറ്റൊന്ന് ഉദാഹരണമായി പൊരുത്തപ്പെടുത്തൽ ഇപ്പോൾ ഈ വൈദഗ്ദ്ധ്യം നമ്മോടൊപ്പമുണ്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് ഒരു വ്യത്യസ്ത കാര്യമാണ് എന്നാൽ പൊരുത്തപ്പെടാനുള്ള സന്നദ്ധത ഉള്ളതിനാൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയും ഇപ്പോൾ നിരവധി ഓർഗനൈസേഷനുകൾ ഓർഗനൈസേഷന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു ജീവനക്കാരനെ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ കർക്കശക്കാരനായിത്തീർന്നാൽ സ്വാഭാവികമായും നിങ്ങൾ ഒരു തെറ്റായ വ്യക്തിയായി മാറുന്നു അതിനാൽ അവർ നിങ്ങളെ ഒരു ജോലിക്കാരനായിട്ടല്ല എന്നതിനാൽ നിങ്ങൾക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഊന്നിപ്പറയാനുള്ള നൈപുണ്യമുണ്ടോ എന്നതും അവർ കാണാൻ പോകുന്നു പക്ഷേ അവർ ഭാവി സാധ്യതകളെക്കുറിച്ചും നോക്കുന്നു കാരണം വരും ദിവസങ്ങളിൽ നിങ്ങൾ ഒരു മാനേജരായിരിക്കുക സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരുതരം പരിഹാരം കാണേണ്ടിവരുമ്പോൾ നിങ്ങൾക്ക് മതിയായ ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സർഗ്ഗാത്മകതയുടെ വൈദഗ്ദ്ധ്യം ഉണ്ടോ കാരണം മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട് ഒപ്പം പുതിയ എന്തെങ്കിലും ചിന്തിക്കാനും സാഹചര്യം ട്രാക്കുചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കാനും കഴിയുന്ന ഒരാളാണ് നേതാവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് അതിനാൽ ഓരോ റിക്രൂട്ടറും കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സർഗ്ഗാത്മകത ഭാവന ഉണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് പരിമിതമായ കാര്യങ്ങൾളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും പക്ഷേ നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ചുമതല പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ നേതൃത്വവുമായുള്ള നിങ്ങളുടെ കാര്യക്ഷമതയോടുകൂടിയ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല വിശാലമായ മനോഭാവത്തോടെയും എല്ലാവരോടും ഉറ്റുനോക്കുക അതിനാൽ ഇവയെല്ലാം ചിലപ്പോൾ തെറ്റായിപ്പോയേക്കാം വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവസാനമായി സ്വാംശീകരിക്കുന്നത് നിങ്ങൾക്ക് വിവേചന ബോധം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുവരിക അതിനാൽ ഈ കഴിവുകളെല്ലാം യഥാർത്ഥത്തിൽ നമ്മിൽ അവബോധജന്യമായ കഴിവുകളാണു അവ എങ്ങനെ കൂടുതൽ വികസിപ്പിക്കാമെന്ന് പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നവർ ഈ കഴിവുകളെല്ലാം നോക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊരു വിഭാഗത്തിലുള്ള കഴിവുകൾ പഠിക്കാൻ കഴിയും നമുക്കെല്ലാവർക്കും ഈ കഴിവുകളിൽ വളരെ നല്ലവരല്ല അറിയാത്ത ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒരു വിഡ്ഢി ആയിരുന്നു കമ്പ്യൂട്ടറുകളെക്കുറിച്ച് കമ്പ്യൂട്ടർ ഒരു ബോക്സ് പോലെയാണെന്നും ടൈപ്പ്റൈറ്ററുകളിൽ ഉണ്ടായിരുന്നതുപോലെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയാമെന്നും കണ്ടിട്ടുണ്ട് എന്നാൽ കാലക്രമേണ മറ്റുള്ളവരെപ്പോലെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ ആളുകൾ അല്ലെങ്കിൽ റിക്രൂട്ടർമാർ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കഴിവുകൾ നേടിയ ആളുകളെ ആഗ്രഹിക്കുന്നു അവർക്ക് കമ്പ്യൂട്ടറുകളിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മറ്റ് കഴിവുകളും ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗുണനിലവാരമുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ജോലികൾക്ക് അനുയോജ്യമാകുന്ന ആളുകളെ അവർ തിരയുന്നു നിങ്ങളുടെ വ്യക്തിഗത കഴിവു ഉള്ള മേഖലകളിലെല്ലാം നമ്മൾ വളരെക്കാലം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ സമയം വന്നാൽ ഈ സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ച ആളുകളുണ്ടെന്നും കണ്ടു അവർക്ക് വ്യത്യസ്ത അവസരങ്ങളിൽ സംസാരിക്കാൻ കഴിയും അവർക്ക് സെഷനുകൾ നടത്താൻ കഴിയുന്ന ഇവന്റുകൾ സംഘടിപ്പിക്കാൻ കഴിയും അവർക്ക് കോൺഫറൻസുകൾ സംഘടിപ്പിക്കാൻ കഴിയും അവർക്ക് വർക്ക് ഷോപ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ അവർക്ക് പരിശീലനവും പ്ലേസ്മെന്റ് സെല്ലും നടത്താം കൂടാതെ അവർക്ക് ആളുകളെ പരിശീലിപ്പിക്കാനും കഴിയും കാരണം ഇവ ഇന്നത്തെ ജോലിസ്ഥലത്തിന്റെ ആവശ്യകതകളാണെന്ന് നിങ്ങൾക്കറിയാം പരിമിതമായ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ലഭിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് സമയ മാനേജുമെന്റ് കഴിവുകൾ ഉണ്ടോ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു ക്രമത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ ഏകോപിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കും നയിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുമോ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആകാനും നിങ്ങൾക്ക് ചിന്തിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഗുണനിലവാരം നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെ നേതൃത്വവും മുൻകൈയും നൽകാൻ കഴിയും നിങ്ങൾക്ക് സംസാരിക്കാൻ എഴുതാനും കഴിവുണ്ടോ നിങ്ങൾക്ക് വ്യത്യസ്ത അവസരങ്ങളിൽ എഴുതാനുള്ള കഴിവുണ്ടോ കാരണം ഈ കഴിവുകളെല്ലാം അവബോധജന്യമല്ല അവ യഥാർത്ഥത്തിൽ പഠിക്കാൻ കഴിയുന്ന കഴിവുകളും ഓരോ ചെറുപ്പക്കാരനു ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഈ കഴിവുകൾ വികസിപ്പിക്കണം പ്രിയ സുഹൃത്തുക്കളേ ഈ കഴിവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ കഴിവുകളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശകലനം ചെയ്യുമ്പോഴും ഇപ്പോൾ നിങ്ങൾ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിരിക്കാം പക്ഷേ നിങ്ങൾ അഭിമുഖത്തിന് ഹാജരാകുന്നതിന് മുമ്പായി നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിച്ചു നിങ്ങളുടെ ബയോഡാറ്റ പക്ഷേ നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കുന്നതിനുമുമ്പ് നിങ്ങളുടെ അഭിമുഖ ഫയൽ വികസിപ്പിക്കുക ഈ അഭിമുഖ ഫയൽ ഒരു ദിവസത്തിനുള്ളിൽ വികസിപ്പിക്കാൻ കഴിയില്ല അഭിമുഖത്തിന്റെ സമയത്ത് നിങ്ങൾക്കറിയാം അഭിമുഖത്തിന്റെ ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ 6 7 എന്നിങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ചില ജോലികൾക്കായി അപേക്ഷിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുക ദയവായി നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങളക്കൊപ്പം തയ്യാറാകൂ അവയിൽ ആദ്യത്തേത് ഒരു റെസ്യൂമേ അത് മറ്റുള്ളവരുമായി മത്സരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകും അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഒരു നല്ല റെസ്യൂമേ എങ്ങനെ ആകാം എന്ന് ചർച്ച ചെയ്യും പക്ഷേ റെസ്യൂമേയ്ക്കു പുറമെ നിങ്ങളുടെ മറ്റ് സാക്ഷ്യപത്രങ്ങളും നിങ്ങൾ കൈവശം വയ്ക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഡിപ്ലോമകൾ ശരിയായ ക്രമത്തിൽ ഒരു ഓർഡർ നൽകി സൂക്ഷിക്കുക ഒരു ഫയലിലായി വളരെ ബുദ്ധിമാനും മറ്റ് കാര്യങ്ങൾ ചോദിക്കാൻ അറിയുന്നവരുമായ ആളുകൾ ചില പത്രം ക്ലിപ്പുകൾ ക്ലിപ്പിംഗുകളും എല്ലാം ശേഖരിച്ചുവെന്ന് കാണാം കാരണം അഭിമുഖത്തിന് മുമ്പ് അവർക്ക് അത് പരിശോധിക്കാൻ കഴിയും അതിനാൽ അവർക്ക് ആത്മവിശ്വാസം തോന്നും തുടർന്ന് നിങ്ങൾക്ക് ചില അനുഭവ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ചില വർക്ക്ഷോപ്പുകളിലെ ചില മത്സരങ്ങളിലെ ചില കോൺഫറൻസുകളിൽ നിങ്ങൾ നേടിയ ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഇവയും നിങ്ങളുടെ അഭിമുഖ ഫയലിന്റെ ഭാഗമാകും നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അവാർഡ് ലഭിച്ചു ഇവയും നിങ്ങളുടെ ഇന്റർവ്യൂ ഫയലിൽ സൂക്ഷിക്കണം കാരണം നിങ്ങൾ ഒരിക്കൽ അപേക്ഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം എല്ലാ ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒന്നും തന്നെ ഒരു ഇന്റർവ്യൂ ലെറ്ററോ ഇന്റർവ്യൂ കോളോ ലഭിക്കുന്നത് തടയാൻ കഴിയില്ല അതിനാൽ ഇവയെല്ലാം സൂക്ഷിച്ച് തയ്യാറാകുക ആരെയെങ്കിലും കാത്തിരിക്കുന്നതു നിങ്ങളാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുക റിക്രൂട്ടർ കാത്തിരിക്കുന്നു കാരണം ഈ ഗുണങ്ങളെല്ലാം ലഭിച്ച ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യാൻ റിക്രൂട്ടർ ആഗ്രഹിക്കുന്നു നിങ്ങൾ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനുമുമ്പ് നിങ്ങൾ തന്നെയാണ് ഒരു അവസരം ലഭിക്കാൻ പോകുന്നതെന്ന് സ്വയം പറയുക അതിനർത്ഥം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം വിജയികളായവർ അല്ലെങ്കിൽ വിജയികൾ വ്യത്യാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് ആരോ പറയുന്നു അതിനാൽ പ്രശസ്ത ചൈനീസ് തത്ത്വചിന്തകന്മാരിൽ ഒരാളായ കൺഫ്യൂഷ്യസിനെ നിങ്ങൾക്കറിയാവുന്നതുപോലെ വിജയിക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ ദൃവും ആത്മാ മന്ത്രവുമാക്കാം നിങ്ങളുടെ പൂർണ്ണ ശേഷിയിലെത്താനുള്ള വിജയിക്കാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി വ്യക്തിഗത മികവിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോലുകളാണ് ഇവ മികവ് എല്ലാ അഭിമുഖങ്ങളുടെയും മുഖമുദ്രയാണ് മികച്ചതാകാൻ നിങ്ങൾ ഈ കഴിവുകളെല്ലാം വികസിപ്പിക്കേണ്ടതുണ്ട് എന്റെ പ്രിയ സുഹൃത്തേ നിങ്ങൾക്ക് കഴിവുകൾ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വിജയിയാകും നിങ്ങൾ വിജയിയാകാൻ പോകുന്നു നിങ്ങൾ വിജയിക്കുകയും ഒരു മാറ്റം വരുത്തുകയും ചെയ്യും അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യും ഒരു നല്ല റെസ്യുമെ എങ്ങനെ തുടർന്ന് അഭിമുഖത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടാമെന്നും എങ്ങനെ വ്യത്യാസം വരുത്താമെന്നും ചർച്ച ചെയ്യും അതിനാൽ നിങ്ങളെ മികച്ചവരായി കണക്കാക്കാം തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ആളുകൾ മികച്ചവരാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ മോശക്കാരല്ല കാരണം അവർ തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ സമയം അവർക്കായി വീണ്ടും കാത്തിരിക്കുന്നു അതിനാൽ വിജയിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം വിജയിക്കാനുള്ള ഇച്ഛാശക്തിയും എത്തിച്ചേരാനുള്ള പ്രേരണയും നിങ്ങൾക്ക് ഈ താക്കോലുകളെല്ലാം ഉണ്ടെങ്കിൽ ഭാവിയിലെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് തുറക്കാൻ ആകും വളരെയധികം നന്ദി